ആപ്ലിക്കേഷനുകളെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളിൽ UAV കളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രഭാഷണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് UAV യുടെ പൂർണ്ണരൂപം അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അതിനാൽ ലോകമെമ്പാടും നിരവധി ഇനിഷിയേറ്റിവിസ് ഉപയോഗിച്ച് ചില പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നത്തിലാണ് UAVകൾക്ക് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉണ്ട് വ്യവസായങ്ങളിലെ ആപ്ലിക്കേഷനുകൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് നമ്മുടെ രാജ്യത്തും മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിലും UAVകൾ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിനായി പര്യവേക്ഷണം ചെയ്യപ്പെടുന്നു വ്യവസായത്തിൽ UAV പര്യവേഷണം ചെയ്യുന്നത് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളതോ മനുഷ്യർക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തതോ ആയ സ്ഥലങ്ങളിൽ അൺമാൻഡ് രീതിയിൽ എത്തിച്ചേരാനാണ് ചിലപ്പോൾ വിഷലിപ്തമായ മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ടാകാം അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യർ പോകുന്നത് അപകടകരമാണ് സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് പറന്നുയരുകയും ഒരു അപകടകരമായ വിദൂര സ്ഥലത്ത് ഇറങ്ങി വ്യത്യസ്ത ഡാറ്റ ശേഖരിക്കുകയും ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ യുഎവികൾ രൂപകൽപ്പന ചെയ്യാം UAV വ്യത്യസ്ത ആപ്പ്ലിക്കേഷനുകളെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UAV കൾക്ക് ആരോഗ്യ പരിരക്ഷയിലും കാർഷിക മേഖലയിലും ഉൽപാദന പ്ലാന്റുകളിലും സ്റ്റീൽ പ്ലാന്റുകളിലും ആണവ നിലയങ്ങളിലും എല്ലാം അപ്ലിക്കേഷൻസ് അപകടസാധ്യത ഉള്ളതിനാൽ മനുഷ്യർക്ക് പോയി സാമ്പിളുകൾ എടുക്കാനോ സാമ്പിളുകൾ ശേഖരിക്കാനോ നിരീക്ഷണങ്ങൾ നടത്താനോ ബുദ്ധിമുട്ടാണ് അതിനാൽ ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങളെല്ലാം വിദൂരമായി ചെയ്യാൻ UAV കൾ സഹായിക്കുന്നു വ്യവസായത്തിൽ യുഎവികൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാനാകും ഇവിടെ ഒരു സിംഗിൾ UAV യെ കുറിച്ചല്ല കണക്റ്റുചെയ്ത വിവിധ യുഎവികളെക്കുറിച്ചാണ് നാം പറയുന്നത് അതായത് പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന UAV കൾ ഒരു UAV യിൽ നിന്ന് മറ്റൊരു UAV യിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കാൻ കഴിയുന്ന UAV കൾ ടെറസ്ട്രിയൽ കൺട്രോൾ സ്റ്റേഷനിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്നവ ഇവയെല്ലാം അതിനാൽ UAV കളും കണ്ണെക്ടഡ് വ്യാപിക്കാനും ഭൂമിയിൽ നിന്ന് വിവരങ്ങൾ കൊണ്ടുപോകാനും കഴിയും അതായത് ഭൌമമണ്ഡലം മുതൽ ആകാശം വരെ ടെറസ്ട്രിയൽ IOT നെറ്റ്വർക്കുകളെ ഉപയോഗവും വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യാനുസരണം അഡാപ്റ്റബിൾ പേലോഡുകൾ ലോഡ് കൊണ്ടുപോകുന്നതിനുള്ള പരമ്പരാഗത മാർഗങ്ങളേക്കാൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ UAV ക്കു അത് ചെയ്യാൻ കഴിയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഡാറ്റ അളക്കാൻ UAV കൾക്ക് കഴിയും പ്രത്യേകിച്ച്മ നുഷ്യർക്ക് അപകടകരമായേക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവ UAV കൾ റീപ്രോഗ്രാം ചെയ്യാവുന്നവയാണ് അതായത് ഇവ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ളതാണ് ഇനി ഈ ആവശ്യങ്ങൾ മാറുകയാണെങ്കിൽ അതിനനുസരിച് ഇവയെ റീപ്രോഗ്രാം കൾ ഉപയോഗിച്ച് നിരവധി വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാനാകും വ്യവസായങ്ങളിൽ ഈ യുഎവികളുമായി സംയോജിപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഡാറ്റയും അളവുകളും മറ്റും ശേഖരിക്കാൻ സാധിക്കും ടെറസ്ട്രിയൽ കണക്ഷൻ മാത്രമല്ല ഏരിയൽ ടു ടെറസ്ട്രിയൽ എല്ലാം UAV കൾക്ക് സാധ്യമാവും യുഎവികൾക്ക് യൂസർ SCADA പോലെയുള്ള ഒരു വ്യാവസായിക നിയന്ത്രണ സംവിധാനവുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ UAV കൾക്ക് കഴിയും SCADA യെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് ഇത് അടിസ്ഥാനപരമായി സൂപ്പർവൈസറി നിയന്ത്രണം സൂപ്പർവൈസറി ഡാറ്റ അക്ക്വിസിഷൻ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അതിനാൽ ഇത് യുഎവിയുടെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഇവിടെ കാണുന്നതുപോലെ ഈ UAV ക്ക് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് ഈ യുഎവിക്ക് ഒരു പ്രൊപ്പല്ലർ ഉണ്ട് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് യുഎവിയുടെ പ്രൊപ്പല്ലറാണ് ഇതൊരു ക്വാഡ്കോപ്റ്റർ ആണ് ഇതിന് നാല് വ്യത്യസ്ത റോട്ടറുകളും എന്നിവയും ഉണ്ടാകാം അതായത് 6 പ്രൊപ്പല്ലറുകൾ 8 പ്രൊപ്പല്ലറുകൾ തുടങ്ങിയവ അതിനാൽ ഇവ ഈ വ്യത്യസ്ത പ്രൊപ്പല്ലറുകളാണ് ഈ പ്രൊപ്പല്ലറുകൾ മോട്ടോറുകളുടെ ഭ്രമണത്താൽ കറങ്ങുന്നു പ്രൊപ്പല്ലറുകൾ ഈ മോട്ടോറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ഒരു മോട്ടോർ ആണ് ഇത് ചെറുതും ചുവപ്പ് നിറത്തിലുമനു ഉള്ളത് ഇത് നമ്മുടെ IIT Kharagpur CSE Department il ഉള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ കാർഷിക ഇമേജറിക്ക് വേണ്ടിയുള്ളതാണ് ഇതൊരു ക്വാഡ്കോപ്റ്റർ UAV യാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് റിമോട്ട് കൺട്രോലിന്റെ ആവശ്യമില്ല പൂർണമായും ഓട്ടോണോമസ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് വിധ ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് തുടരാം ഇത് ഒരു പ്രൊപ്പല്ലർ ആണ് അതുപോലെ തന്നെ 4 വ്യത്യസ്ത പ്രൊപ്പല്ലറുകളും ഉണ്ട് അതിനാൽ ഈ പ്രൊപ്പല്ലറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ മോട്ടോറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന ചുവന്ന നിറത്തിലുള്ളവയാണ് അതിനാൽ 4 വ്യത്യസ്ത മോട്ടോറുകൾ ആണ് ഉള്ളത് വ്യത്യസ്ത സവിശേഷതകളിൽ ഉള്ള മോട്ടോർസ് ഉണ്ട് നിങ്ങൾക്ക് ഉയർന്ന ശേഷിയുള്ള മോട്ടോറുകൾ ഉണ്ടെങ്കിൽ അത് ഉയർന്ന ഉയരം ഉയർന്ന ത്രസ്റ്റ് ബിറ്റ് മികച്ച പേലോഡ് വഹിക്കാനുള്ള ശേഷി തുടങ്ങിയവ നൽകും ഇനി നമ്മൾ APM നെ കുറിച്ചാണ് സംസാരിക്കുന്നത് APM ഒരു കൺട്രോളർ ദിശയിലും കറങ്ങുന്നു ഒരു സെറ്റ് പ്രോപ്പല്ലേഴ്സ് ക്ലോക്ക്വിസ് ദിശയിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് UAV യെ ലിഫ്റ്റ് എടുക്കുന്നതിനു സഹായിക്കും അതിനാൽ യുഎവിയുടെ രൂപകൽപ്പനയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഞാൻ നിങ്ങളോടു പറഞ്ഞ എപിഎം കൺട്രോളറാണ്ഇവയാണ് വ്യത്യസ്ത മോട്ടോറുകളെ കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ ഇതാണ് GPS യൂണിറ്റ് ഇവയാണ് ഫ്ലൈറ്റിൽ ആയിരിക്കുമ്പോൾ ഡേവിസിന് GPS പൊസിഷൻ ലഭ്യമാവാൻ സഹായിക്കുന്നത് ഇത് ധാരാളം കമ്പ്യൂട്ടെഷൻ വഴി അയച്ചുകൊടുക്കുകയും ചെയ്യുന്നു ഇത് ഒരു സോളാർ സെൻസർ തുടങ്ങിയ വിവിധ ഗ്യാസ് സെൻസറുകൾ ഉണ്ട് ഈ വ്യത്യസ്ത ഗ്യാസ് സെൻസറുകളെല്ലാം UAV യിൽ ഘടിപ്പിക്കാവുന്നവയാണ് UAV പറക്കുന്ന സമയത്തു ഈ ഗ്യാസ് സെൻസറുകൾ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്നു അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവ ഫ്ലൈറ്റ് സമയത്ത് ധാരാളം ഡാറ്റ ശേഖരിക്കുന്ന മൊബൈൽ സെൻസർ യൂണിറ്റ് പോലെയാകുന്നു ഇത് UAV യുടെ ഉപയോഗം കൊണ്ടുള്ള ഒരു നേട്ടം ആണ് UAV യിൽ ക്യാമെറകൾ ഘടിപ്പിക്കാനും സാധിക്കും നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു കാമറ ആണ് നിങ്ങൾക്ക് ഇത് ശരിയായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല UAV യെ ക്യാമെറയുമായ് ഉപയോഗിച് കാർഷിക വയലുകളിൽ വ്യത്യസ്ത വിളകളുടെ അവസ്ഥയും മറ്റും മനസിലാക്കുന്നതിനായി ചിത്രങ്ങൾ ശേഖരിക്കാൻ കഴിയും ഇത് നമ്മുടെ ലാബിൽ ഉള്ള ഒരു അഗ്രോ യുഎവി എല്ലാം അയക്കുന്നു IIT Kharagpur Department of Computer Science and Engineering ന്റ്റെ swan lab ൽ ധാരാളം UAV കൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ യുഎവികളുടെ ഡിസൈൻ വെല്ലുവിളികൾ ഇതിലൂടെ പരിഹരിക്കുന്നു UAV കൾ ഉപയോഗിച്ച് ഞങ്ങൾ ധാരാളം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ഒരു UAV എപ്രകാരമാണ് ഉള്ളതെന്ന് കാട്ടുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഇത് എന്റെ ലാബിൽ നിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്ന ഒരു സാമ്പിൾ UAV ആണ് ഈ പ്രത്യേക UAV ചില കാർഷിക നിരീക്ഷണ ആപ്ലിക്കേഷനുകൾക്കുള്ളതാണ് കാർഷിക മേഖലയുടെ ചിത്രങ്ങൾ എടുക്കുന്ന അഗ്രോ ഇമേജറി ക്കായാണ് ഈ UAV ഉപയോഗിക്കുന്നത് അതിനാൽ ഈ UAV ഒരു ക്വാഡ്കോപ്റ്ററാണ് ആകാംഅങ്ങനെ ഏതു തരത്തിലുള്ള UAV ആയാലും അവയെ റിമോട്ട് കൺട്രോൾസ് ഉപയോഗിച്ച് നിരീക്ഷിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കും റിമോട്ട് കൺട്രോൾസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന UAV കൾ വിപണിയിൽ വളരെ സാധാരണമാണ് നിങ്ങൾ ഒരു UAV വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു റിമോട്ട് കൺട്രോൾഡ് UAV ആയിരിക്കും മിക്കവാറും ലഭിക്കുക ഈ UAV റിമോട്ട് കൺട്രോൾഡ് ദിശയിലും കറങ്ങുന്നു ക്ലോക്ക്വൈസ് ആണ് ഉള്ളത് അതിനാൽ 4 മോട്ടോറുകളും ഈ മോട്ടോറുകൾക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഈ ചുവന്ന നിരത്തിലുള്ളത് ഒരു മോട്ടോർ ആണ് ഇതാണ് ഒരു മോട്ടോർ ഇത് ഒരു പ്രൊപ്പലർ ഇതുപോലെ നാല് വ്യത്യസ്ത മോട്ടോറുകൾ ആണ് ഇവിടെ ഉള്ളത്

ഇപ്പോൾ UAV യുടെ മറ്റ് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഈ മുഴുവൻ യുഎവിയും പ്രവർത്തിക്കാൻ പവർ പറത്താൻ ഇതിനു കഴിയും ഈ ലിപോ ബാറ്ററികൾ ഉണ്ടെന്നും നിങ്ങൾ ഈ കാണുന്ന ഉപകരണം ഉപയോഗിച്ചു കണ്ടെത്താനാകും അതിനാൽ ഈ ബാറ്ററി കൂടിയുണ്ട് ഇത് അടിസ്ഥാനപരമായി ഒരു റാസ്ബെറി പൈ

നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ UAV രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൃഷികളുടെ അഗ്രോ ഇമേജറിക്കു വേണ്ടിയാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇവിടെ ഒരു ക്യാമറയുണ്ട് ചെയ്യുന്നു ഈ ക്യാമറ നോട് ബന്ധിപ്പിച്ചിട്ടുണ്ട് മുകളിലായി കാണുന്നത് ഒരു GPS ഡിവൈസ് കൺട്രോൾ ചെയ്യുന്നു അതിനാൽ APMകോൺട്രോളറുകളുടെയും കാണിക്കാൻ പോകുന്നു ഇതാണ് നമ്മൾ UAV പറത്താൻ പോകുന്ന കൃഷി സ്ഥലം ക്ഷമിക്കണം ഇത് കാർഷിക മേഖലയൊന്നും അല്ല ഞങ്ങളുടെ ക്യാമ്പസ്സിൽ ഉള്ള ചെറിയൊരു വയലാണ് ഇത് ശരിക്കും ഹെലിപാഡിന് വേണ്ടിയുള്ളതാണ് ഞങ്ങൾ ഇവിടെ ചെറിയ തോതിലുള്ള ലോ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒരു സെറ്റ് പ്രൊപ്പല്ലറുകൾ ദിശയിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഈ UAV കൾ പറക്കുന്നത് ഇത് UAV യുടെ ഒരു ഉദാഹരണം ആണ് UAV യുടെ ഉപയോഗത്തിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത സെൻസർ ഡാറ്റ നിങ്ങൾക്കു ആവശ്യമായി വന്നേക്കാം ഉദാഹരണത്തിന് മീഥെയ്ൻ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങൾ അവയുടെ സാന്ദ്രത അതുപോലെയുള്ള വിവരങ്ങൾ ഒരു വ്യാവസായിക പ്ലാന്റിൽ ഇതിനായി നമുക്ക് UAV കൾ ഉപയോഗിക്കാനാകും പക്ഷെ അത്തരത്തിലുള്ളവ ഇൻഡോർ UAV ഘടിപ്പിക്കാം കൂടാതെ എത്രത്തോളം നന്നായി നിരീക്ഷിക്കണം എന്നതിനെ ആശ്രയിച്ച് സെൻസറുകളുടെ തരത്തിലും വ്യത്യാസം ഉണ്ടാകാം ഇത് UAV യുടെ അത്തരത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ആണ് ഈ UAV ഒരു കാർഷിക ആവശ്യത്തിനായുള്ളതാണെന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ കൃഷിസ്ഥലം ഈ UAV ഇവിടെ നിന്നുള്ള വിവിധ ഇമേജുകൾ എടുക്കുന്നു കൂടാതെ ഇവ വ്യത്യസ്ത ബേസ് സ്റ്റേഷനുകളെ ആയി പ്രവർത്തിക്കുന്നു പരസ്പരം നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് UAV കൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതും ഞങ്ങളുടെ ലാബിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ ഇവയെല്ലാം Yowan lab UAVs ൽ ഉണ്ട് അതിനാൽ ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ടെസ്റ്റിംഗിന്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് രണ്ടു UAV കളുടെ ഒരു ചെറിയ നെറ്റ്വർക്ക് പാസ് ചെയ്യാൻ സാധിക്കും വ്യവസായ മേഖലയിൽ വളരെ ആകർഷകമായ ഒന്നാണ് UAV കൾ ഇൻഡസ്ട്രിയൽ പവർ പ്ലാന്റസിലെ വാതകങ്ങൾ പുറംതള്ളുന്ന ചിമ്മിനികളിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ചിമ്മിനികളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ചിത്രങ്ങൾ ശേഖരിക്കുന്നതിന് UAV ക്ക് സഹായിക്കാനാകും കൂടാതെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടിവരുമ്പോൾ എത്രമാത്രം അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് എപ്പോഴത്തേക്കുഅത് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നൊക്കെ UAV ശേഖരിക്കുന്ന ഇമേജുകൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് മറ്റു ചില കൺസെപ്റ്റുകൾ തുടങ്ങിയവക്കായി ഉപയോഗിക്കുന്നവ ഇതുപോലെ ഈ UAV കൾ മൂന്നാം തലമുറ നാലാം തലമുറ അഞ്ചാം തലമുറ ആറാം തലമുറ എന്നിങ്ങനെ വർഷങ്ങളായി പരിണമിച്ചു നിലവിൽ നമുക്ക് ഏഴാം തലമുറയിലുള്ള UAV കളാണ് ഉള്ളത് ഇവ ഇന്റലിജന്റ് ആണ് അതിനാൽ ഇപ്പോൾ നമ്മൾ UAV കളുടെ ഏഴാം തലമുറയിൽ ആണ് ഉള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതുപോലെ UAV കൾ വ്യത്യസ്ത വ്യവസായങ്ങളിൽ ഉപയോഗിക്കുംകാർഷിക വ്യവസായം കൺസ്ട്രക്ഷൻ സൈറ്റ് മൈനിംഗ് വ്യവസായം ഇതിനെല്ലാം UAV കൾ ഉപയോഗിക്കാം നിലവിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് വ്യത്യസ്ത സൈനിക ദൌത്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ യുഎവികൾ ഉപയോഗിക്കാം വ്യത്യസ്ത നിരീക്ഷണ സർവേകൾക്കും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും സൈന്യത്തിൽ യുഎവികൾ ഉപയോഗിക്കാം മറ്റ് വ്യവസായങ്ങളിലും യുഎവികൾ ഉപയോഗിക്കാം ആരോഗ്യ സംരക്ഷണ വ്യവസായം എണ്ണ വാതകം വെയർഹൌസിംഗ് ഉള്ള വിവിധ വ്യവസായങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ് കാർഷിക മേഖലയിൽ UAV കൾക്കു ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയിൽ UAV കളുടെ ഉപയോഗം വളരെ ആവശ്യമായ ഒന്നാണ് വ്യത്യസ്ത ഗവേഷണ ലാബുകളിലും അക്കാദമിക് റിസർച്ച് ലാബുകളിലും മറ്റും നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കാർഷിക ആപ്ലിക്കേഷനിൽ അയക്കാനും UAV കൾക്ക് കഴിയും കീടനാശിനികൾരാസവളങ്ങൾ എന്നിവ തളിക്കുന്നതിന് യുഎവികൾ നിങ്ങളെ സഹായിക്കും അതിനാൽ കാർഷിക വ്യവസായങ്ങളിലെ യുഎവികളുടെ ഉപയോഗങ്ങൾ ഇവയൊക്കെയാണ് അതിനാൽ കാർഷിക മേഖലയിൽ UAV കൾക്ക് വ്യത്യസ്ത ഉപയോഗങ്ങളുണ്ട് പ്രത്യേകിച്ചും UAV കൾ ക്യാമറ ഉപയോഗിച്ച് മൌണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിക് ഇമേജുകളും തത്സമയ വീഡിയോകളും വിശകലനം ചെയ്യാനും വിളയുടെ അവസ്ഥയെക്കുറിച്ച് ഫലപ്രദമായ തീരുമാനമെടുക്കാനും സാധിക്കും നിർമ്മാണ സൈറ്റുകളിലും UAV കൾ ഇതുപോലെ ഉപയോഗിക്കാം നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടോ നിർമ്മാണ കാര്യങ്ങളിൽ എത്രത്തോളം പുരോഗതിയുണ്ട്സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ ഈ നിർമ്മാണ സ്ഥലങ്ങളിൽ തൊഴിലാളികൾ സ്വീകരിക്കുന്ന സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ് ഇവയെല്ലാം UAV കൾ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും വിദൂരമായ തത്സമയ നിരീക്ഷണത്തിലൂടെ നിർമ്മാണ ഘടനകളുടെ പരിശോധന തുടർച്ചയായി നടത്താണ് UAV യുടെ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു എനർജി മാനേജ്മെന്റിലും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ ഈ ട്രാൻസ്മിഷൻ ലൈനുകളുടെ തത്സമയവും തുടർച്ചയായതുമായ നിരീക്ഷണം നടത്താൻ UAV കൾ സഹായിക്കുന്നു മൈനിങ് ഉപയോഗിക്കാംഎന്നാൽ ഈ UAV കളുടെ സവിശേഷതകൾ വ്യത്യസ്തമായിരിക്കും അതിനാൽ UAV കളുടെ ഇൻഡോർ മൈനിംഗ് ഉപയോഗത്തിന് ഖനന മേഖലയുടെ ആവശ്യകതക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇൻഡോർ UAV കൾ ആവശ്യമായി വരും എന്നാൽ മൈനിങ് മേഖലയിൽ ഓപ്പൺ കാസ്റ്റായാലും ഇൻഡോർ ഖനികളായാലും വിവിധ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് UAV കൾ ഉപയോഗിക്കാം ഒരു പ്രദേശം നിരീക്ഷിക്കുന്നതിനായി നടത്തുന്ന ഓപ്പറേഷൻസിന്റെ ഉണ്ട് ഹെൽത്ത് കെയർ അയക്കാൻ UAV കൾ സഹായിക്കുന്നു ടെലികമ്മ്യൂണിക്കേഷൻ ബന്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ പറക്കുന്ന UAV കളുടെ സഹായത്തോടെ അത്തരത്തിലുള്ള കണക്റ്റിവിറ്റികൾ സാധ്യമാണ് അതുപോലെ എണ്ണ വാതക മേഖലയിൽ ലീക്കേജ് എടുക്കുന്നതിനായും മറ്റും UAV കൾ ഉപയോഗിക്കുന്നു അതുപോലെ കൺസ്ട്രക്ഷൻ പ്ളാനിങ് ആവശ്യകത കുറക്കൽ ഇതെല്ലം UAV യുടെ സഹായത്തോടെ ചെയ്യാനാകും വെയർഹൌസിംഗിനും ഉപയോഗിക്കുന്നു അതിനാൽ ഇൻഡോർ യുഎവികളുടെ സഹായത്തോടെ ഇതെല്ലാം ചെയ്യാനാകും ഫോറെസ്റ്ററി ആപ്ലിക്കേഷനുകളിൽ കാട്ടുതീയുടെ വേഗത നിരീക്ഷിക്കൽ ഇവയെല്ലാം ഉണ്ട് ഒരു കാട്ടുതീ ഉണ്ടായാൽ വംശനാശഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നത് മനുഷ്യശേഷിയും വിഭവങ്ങളും വനവിഭവങ്ങളും വനപാലകരയുമെല്ലാം സംരക്ഷിക്കുന്നതിന് ഇതിനെല്ലാം UAV കൾ സഹായിക്കുന്നു കൂടാതെ സസ്യങ്ങളുടെ വളർച്ചയുമെല്ലാം യുഎവികളുടെ സഹായത്തോടെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ നിരീക്ഷിക്കാൻ കഴിയും ഇതുപോലെ ഫോറെസ്റ്ററി എൻവിറോണ്മെന്റിൽ എന്നിവയുമായി കണക്ട് ചെയ്ത് പരിസ്ഥിതിയും മലിനീകരണവും മറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഷിപ്പിംഗ് ആൻഡ് ഡെലിവറിയിലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിക്കുന്നതിനായി UAV കൾ ഉപയോഗിക്കുന്നു അതിനാൽ കൊറിയർ കമ്പനികളും ലഭ്യമാണ് അതിനാൽ ഈ കോഴ്സിന്റെനടപ്പിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും വ്യാവസായിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക നിങ്ങൾ ഒരു വ്യവസായത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ ഒരു നിർമ്മാണ പ്ലാന്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ പ്രത്യേക വ്യവസായത്തിൽ ഇതിനകം തന്നെ ചില ആവശ്യകതകൾ ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു പ്രശ്നം തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് ഒരു UAV പരിഹാരം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കുക ഒരു പ്രത്യേക ടാസ്ക് യുഎവികളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അതിനാൽ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് UAV കളെക്കുറിച്ചുള്ള ഈ അവസാനത്തെ ലെക്ചറിൽ ആണ്